തിരികെ സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 42 ആണ് വെക്റ്റർ സ്പെയ്സുകളെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ വീണ്ടും തുടരും പ്രത്യേകിച്ചും ഇന്ന് ഒരു വെക്റ്റർ സ്പേസിന്റെ ബെയ്സിസിനെക്കുറിച്ചും വെക്റ്റർ സ്പേസിന്റെ ഡയമെന്ഷനെക്കുറിച്ചും സംസാരിക്കും മുൻ ലെക്ച്ചറിൽ നിന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറയുന്നു യിലെ എന്നീ 4 വെക്റ്ററുകളുടെ സെറ്റ് യുടെ ഒരു സ്പാനിങ് സെറ്റ് ഫോം ചെയ്യുന്നു അർത്ഥം ഈ വെക്റ്റർ സ്പേസ് യിലെ ഏതൊരു എലെമെന്റിനെയും ഈ 4 വെക്റ്ററുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷനായി നമുക്ക് എഴുതാം ന് തുല്യമായ ലീനിയർ കോമ്പിനേഷനിൽ നിന്ന് ഓഗ്മെന്റഡ് മാട്രിക്സിന്റെ സഹായത്തോടെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ടതാണ് ഈ ഓഗ്മെന്റഡ് മാട്രിക്സിൽ നിന്നും നമ്മൾ റോ എക്കലോൺ ഫോമിലേക്ക് മാറ്റുമ്പോൾ ഇനിപ്പറയുന്നവ നമ്മൾ നിരീക്ഷിക്കുന്നു

ഇതിൽ 3 പിവറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ നിരീക്ഷിച്ചു കോളം 1 ൽ നമുക്ക് പിവറ്റ് ഉണ്ട് 2 ആം കോളത്തിലും നമുക്ക് പിവറ്റ് ഉണ്ട് കോളം 3 ന് ഒരു പിവറ്റ് ഉണ്ട് 4 ആം കോളത്തിന് ഒരു പിവറ്റ് ഇല്ല ഇതിനെയാണ് നമ്മൾ ഫ്രീ വേരിയബിൾ എന്ന് വിളിക്കുന്നത് അതിനാൽ ഈ സമവാക്യ സിസ്റ്റം ഉപയോഗിച്ച് ലാംഡ 4 ഫ്രീ വേരിയബിൾ ആണെന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു ഫ്രീ വേരിയബിൾ എന്നത് അർത്ഥമാക്കുന്നത് ഈ ലാംഡ 4 ന് നമുക്ക് ആവശ്യമുള്ള മൂല്യം നൽകാം എന്നാണ് അതിനാൽ ഇപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷനിൽ മൂല്യങ്ങൾ നൽകാനുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്കുണ്ട് അതിനാൽ ലാംഡയുടെ മറ്റൊരു മൂല്യം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾക്ക് മറ്റൊരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാവും അത് കൃത്യമായി ഈ വെക്റ്റർ നൽകും അതിനാൽ ഇത് ഒരു സ്പാനിംഗ് സെറ്റ് ഫോം ചെയ്യുന്നു കാരണം ഈ സ്പെയ്സിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും ആര്ബിട്രേറി വെക്റ്റർ ഈ 4 വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷനായി നമുക്ക് എഴുതാം ഈ ഫ്രീ വേരിയബിൾ കാരണം നമ്മൾക്ക് യൂണിക് അല്ലാത്ത ഒരു റെപ്രെസെന്റഷൻ ഉണ്ടെന്നത് ഇവിടെ രസകരമാണ് അതിനാൽ നമുക്ക് ഒരു ഫ്രീ വേരിയബിൾ ഉള്ളപ്പോൾ ഈ ലാംഡ 4 ന് നമുക്ക് ആവശ്യമുള്ള ഏത് മൂല്യവും നൽകാം തുടർന്ന് ഈ വെക്റ്ററിന്റെ റെപ്രെസെന്റഷനും മാറും അതിനാൽ ഈ ലീനിയർ കോമ്പിനേഷനും മാറും മുമ്പത്തെ ലെക്ച്ചറിൽ എന്താണ് കണ്ടത് ഉദാഹരണത്തിന് നമ്മൾ ഈ നാലാമത്തേ വെക്റ്റർ പരിഗണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് ഈ നിര ഇവിടെ ഉണ്ടാകില്ല ഈ നിര നമുക്ക് ഇപ്പോൾ ഇല്ലാതാക്കാൻ കഴിയും അതിനാൽ ആ സാഹചര്യത്തിൽ നമ്മൾ നിരീക്ഷിക്കുന്നത് ഓരോ നിരയിലും ഒരു പിവറ്റ് ഉണ്ട് കൂടാതെ ഒരു ഫ്രീ വേരിയബിളും ഇല്ല എന്നാണ് അർത്ഥം നമുക്ക് ഒരു ഫ്രീ വേരിയബിൾ ഇല്ലാത്തപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി ഒരു യൂണിക് റെപ്രെസെന്റഷൻ ലഭിക്കും ഈ സിസ്റ്റത്തിന്റെ യൂണിക് ആയ ഒരു പരിഹാരം ഈ 4 വെക്റ്ററുകൾ ഉള്ളതിനാൽ നമുക്ക് അത് ഒരു സ്പാനിംഗ് സെറ്റ് ഫോം ചെയ്യാം എന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും നമുക്ക് ഇപ്പോൾ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യാൻ എത്ര മിനിമം വെക്റ്ററുകൾ ആവശ്യമാണെന്ന ആശയം വരും ഉദാഹരണത്തിന് ഈ 3 വെക്റ്ററുകൾ എടുക്കുന്നതിലൂടെ നമുക്ക് മുഴുവൻ വെക്റ്റർ സ്പേസും സ്പാൻ ചെയ്യാനാകുമെന്ന് നമ്മൾ നിരീക്ഷിച്ചു മാത്രമല്ല പ്രധാന കാര്യം ഈ 3 വെക്റ്ററുകളെടുക്കുകയാണെങ്കിൽ ൽ നിന്നുള്ള ഏതൊരു വെക്ടറിന്റെയും യൂണിക് ആയ ഒരു റെപ്രെസെന്റഷനും നമുക്കുണ്ട് പക്ഷേ നമ്മൾ 4 വെക്റ്ററുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സ്പാനിംഗ് സെറ്റ് രൂപീകരിക്കുന്നു പക്ഷേ നമ്മൾക്ക് യൂണിക് ആയ ഒരു റെപ്രെസെന്റഷൻ ലഭിക്കുന്നില്ല അതിനാൽ ഈ വസ്തുതകൾ ഇപ്പോൾ മനസ്സിൽ വച്ചുകൊണ്ട് ബെയ്സിസിന്റെയും ഡയമെൻഷന്റെയും നിർവചനങ്ങളുമായി നമ്മൾ തുടരും ബെയ്സിസ് എന്നാൽ ഒരു വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്ന ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ് അതിനാൽ ലളിതമായ നിർവചനം ഇത് ഒരു സ്പാനിംഗ് സെറ്റാണ് കാരണം ഇത് മുഴുവൻ വെക്റ്റർ സ്പെയ്സ് V യെയും സ്പാൻ ചെയ്യണം എന്നാൽ പുറമേ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സ്പാൻ സെറ്റ് ആയിരിക്കുകയും വേണം അതിനാൽ ബെയ്സിസ് എന്നാൽ എല്ലാ വെക്റ്റർകളും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്പാനിങ് സെറ്റ് എന്നാണ് ഈ സ്പാനിങ് സെറ്റിൽ നമ്മൾക്ക് മുമ്പത്തെ ഉദാഹരണത്തിലെന്നപോലെ ഈ 4 വെക്റ്ററുകളും എടുക്കുകയോ അല്ലെങ്കിൽ 3 വെക്റ്ററുകൾ മാത്രം എടുക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ 3 വെക്റ്ററുകൾ എടുക്കുകയാണെങ്കിൽ ആ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ആ 4 വെക്റ്ററുകൾ സെറ്റിലുണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡന്റ് ആയിത്തീരുന്നു കൂടാതെ മുമ്പത്തെ ലെക്ച്ചറുകളിൽ നമ്മൾ ഇതിനകം വികസിപ്പിച്ച തിയറി നിരീക്ഷിക്കാനും കഴിയും അതിനാൽ ആ 3 വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ആ വെക്റ്ററുകൾക്ക് അവയെ നമുക്ക് സ്പാനിങ് സെറ്റ് ഫോം ചെയ്യുന്നവ എന്ന് വിളിക്കാം 4 വെക്റ്ററുകളല്ല അവ ഒരു സ്പാനിങ് സെറ്റ് ആണെങ്കിൽ കൂടി അവ യുടെ ഒരു ബെയ്സിസ് ആവുന്നില്ല ഒരു ബെയ്സിസിലെ എലെമെന്റുകളുടെ എണ്ണത്തെ വെക്റ്റർ സ്പെയ്സിന്റെ ഡയമെന്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ ആ ബെയ്സിസിൽ എത്ര എലെമെന്റുകൾ ഉണ്ട് ആ എണ്ണത്തെ വെക്റ്റർ സ്പെയ്സിന്റെ ഡയമെന്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ രണ്ടും ബെയ്സിസ് ആണ് അത് തന്നിരിക്കുന്ന വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നു ഇവിടെ ഇതിലെ വെക്ടറുകളുടെ എണ്ണം വളരെ പ്രധാനമാണ് അത് വെക്റ്റർ സ്പെയ്സിന്റെ ഡയമെന്ഷനെക്കുറിച്ച് പറയുന്നു V ലെ ഓരോ വെക്റ്ററും തന്നിരിക്കുന്ന മറ്റു വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ലീനിയർ കോമ്പിനേഷനായി യൂണിക് ആയി എഴുതാമെന്ന ഒരു കുറിപ്പ് ഇവിടെയുണ്ട് ഈ വസ്തുത മുമ്പത്തെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ വിശദീകരിക്കാം നമുക്ക് ബെയ്സിസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റായിട്ടുള്ള വെക്ടറുകൾ ഉണ്ട് എന്നതാണ് നിങ്ങൾക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റായിട്ടുള്ള വെക്ടറുകൾ ഉള്ളപ്പോൾ ഈ V യിൽ നിന്ന് എടുക്കുന്ന ഒരു വെക്റ്ററിനെ റെപ്രെസെന്റ് ചെയ്യുന്നതിന് നൽകിയിരിക്കുന്ന വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്രീ വേരിയബിൾ ഉണ്ടാകില്ല നമുക്ക് ബേയ്സിസ് ഉള്ളപ്പോഴെല്ലാം ആ റെപ്രെസെന്റഷൻ യൂനിക് ആയിരിക്കും നമ്മളുടെ സ്പാനിംഗ് സെറ്റിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകൾ റെപ്രെസെന്റഷൻ യൂനിക് ആയിരിക്കും വെക്റ്റർ സ്പേസ് 0 നമുക്ക് 0 എന്ന ഒരു എലമെന്റ് മാത്രമുള്ളപ്പോൾ ഇത് ഒരു പ്രത്യേക കേസാണ് ഇതിൻറെ ഡയമെൻഷൻ 0 എന്ന് നമ്മൾ നിർവചിക്കുന്നു അതിനാൽ നമ്മൾ ഇതിനകം പഠിച്ച വെക്റ്റർ സ്പേസ് ന്റെ ഉദാഹരണം എടുക്കാം ന്റെ ബെയ്സിസ് എന്താണെന്നും ഈ വെക്റ്റർ സ്പേസ് ന്റെ ഡയമെന്ഷൻ എന്താണെന്നും നമ്മൾ സംസാരിക്കും ഇപ്പോൾ ന്റെ സ്റ്റാൻഡേർഡ് ബെയ്സിസ് എന്ന് വിളിക്കുന്ന വളരെ പ്രത്യേക വെക്ടറുകളെ നമ്മൾ പരിഗണിക്കുന്നു അവ and in എന്നിവയാണ് ഈ എലമെന്റ്കൾ നമ്മൾ നിർവചിച്ചിരിക്കുന്നത് ൽ നിന്നുള്ളതാണ് ഇപ്പോൾ ഈ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കും ആദ്യം അത് നമുക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും മുമ്പും പരിശോധിച്ചതായി നമ്മൾ കരുതുന്നു അതിനാൽ നമ്മൾ and so അങ്ങനെ കാണണം അവ 0 വെക്ടർ ആയി സെറ്റ് ചെയ്താൽ ഇതിൽനിന്ന് 0 0 0 അങ്ങനെ എല്ലാം സീറോ ആയി ലഭിക്കുന്നു അതിനാൽ വെക്റ്ററുകൾ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ഗണമായി മാറുന്നുവെന്ന് കാണുന്നതിന് ഇത് വളരെ എളുപ്പമാണ് അതിനാൽ ഈ വെക്റ്ററുകളെല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ മറ്റെന്താണ് നിരീക്ഷിക്കേണ്ടത് നമ്മൾ വെക്റ്റർ സ്പേസിന്റെ ബെയ്സിസും ഡയമെന്ഷനും കണ്ടെത്തേണ്ടതുണ്ട് അതിനായി നമുക്ക് ഒരു സ്പാനിങ് സെറ്റ് ആവശ്യമാണ് അടിസ്ഥാനപരമായി നമ്മുടെ വെക്റ്റർ സ്പെയ്സിൽ നിന്ന് ഉള്ള ഏത് വെക്റ്ററേയും ഇതിലെ വെക്റ്റർകളുടെ രൂപത്തിൽ റെപ്രെസെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റ് അതിനാൽ ഇവിടെ അത് സാധ്യമാണോ അല്ലയോ എന്ന് നമ്മൾ ഇപ്പോൾ പരിശോധിക്കും ഇവിടെ ഈ n വെക്ടറുകൾ നൽകിയിട്ടുണ്ട് ൽ നിന്ന് ഒരു ജനറൽ എലമെന്റ് എടുക്കുന്നു അതിനെ നമ്മൾ ഇവിടെ എന്ന് വിളിക്കുകയും ചെയ്യുന്നു നൽകിയിരിക്കുന്ന വെക്റ്ററുകളുടെ സഹായത്തോടെ ഈ വെക്റ്ററിനെ പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയും ഈ കേസിൽ ആശയം വീണ്ടും ലളിതമാണ് അതിനാലാണ് ഇവയെ സ്റ്റാൻഡേർഡ് ബെയ്സിസ് എന്ന് വിളിക്കുന്നത് ഈ v യെ ആയി റെപ്രെസെന്റ് ചെയ്യാം മറ്റെല്ലാ വെക്റ്ററുകൾക്കും ആദ്യത്തെ ഘടകമായി 0 ഉള്ളതിനാൽ മറ്റെവിടെയും നമുക്ക് ഈ സ്ഥാനത്ത് ഒന്നും ലഭിക്കില്ല രണ്ടാമത്തെ ന് രണ്ടാം സ്ഥാനത്ത് മാത്രമാണ് 1 ഉള്ളത് മറ്റുള്ളവയെല്ലാം 0 അതിനാൽ സ്വാഭാവികമായും നമുക്ക് ഇതിൽ നിന്ന് മാത്രമേ രണ്ടാം സ്ഥാനത്ത് ലഭിക്കുകയുള്ളൂ അങ്ങനെ തുടരുന്നു അതിനാൽ ഈ ൽ നിന്നുള്ള ഏതെങ്കിലും വെക്റ്റർ v യെ നമുക്ക് നൽകിയിരിക്കുന്ന വെക്ടറുകൾ കൊണ്ട് റെപ്രെസെന്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതിനകം റെപ്രെസെന്റ് ചെയ്തിട്ടുണ്ട് അതിനാൽ ബെയ്സിസിന്റെ എല്ലാ പ്രോപ്പർട്ടികളെയും ഇത് തൃപ്തിപ്പെടുത്തുന്നു കാരണം ഇത് ഒരു സ്പാനിംഗ് സെറ്റാണ് കാരണം നൽകിയിരിക്കുന്ന വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ രൂപത്തിൽ വെക്റ്റർ സ്പേസ്ന്റെ ഏതൊരു വെക്റ്റർനിയും സ്പാൻ ചെയ്യാൻ കഴിയും കൂടാതെ ഈ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റുമാണ് അതിനാൽ അവ ബെയ്സിസായിത്തീരുന്നു അതിനാൽ നമ്മൾക്ക് ഈ ന് ഒരു ബെയ്സിസ് ലഭിച്ചു ഇവിടെ നൽകിയിരിക്കുന്ന വെക്റ്ററുകളുടെ ഈ സെറ്റ് ന് ഒരു ബെയ്സിസ് ഫോം ചെയ്യുന്നു ഈ സെറ്റിലെ എലെമെന്റുകളുടെ എണ്ണമാണ് ഇപ്പോൾ ഡയമെന്ഷൻ അതിനാൽ ഇവിടെ നമുക്ക് എന്നീ എലെമെന്റുകളുണ്ട് അതിനാൽ നമ്മൾക്ക് ഈ വെക്റ്റർ സ്പേസിന്റെ ഡയമെന്ഷൻ n ആണ് എല്ലാ മാട്രിക്സ്ന്റെയും വെക്റ്റർ സ്പേസിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്ന ഈ ഉദാഹരണം അല്ലെങ്കിൽ പൊതുവെ മാട്രിക്സ് പോലെ നമുക്ക് ചർച്ച ചെയ്യാം അതിനാൽ ലളിതവൽക്കരണത്തിന് ആയി നമുക്ക് ഈ മാട്രിക്സ് എടുക്കാം പക്ഷേ ഈ ആശയം മെട്രിക്സുകൾക്കും നമുക്ക് വിപുലീകരിക്കാം അതിനാൽ നമ്മൾ സംസാരിക്കുന്ന എല്ലാ മെട്രിക്സുകളുടെയും വെക്റ്റർ സ്പേസ് ഇവിടെയുണ്ട് ഈ വെക്റ്ററുകൾ ഇവിടെ പരിഗണിക്കുകയാണെങ്കിൽ ഈ സ്ഥാനത്ത് 1 ഉം മറ്റെല്ലാ സ്ഥാനങ്ങളും 0 ആണ് അതുപോലെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് 1 ആണ് മറ്റുള്ളവരെല്ലാം 0 ആണ് അങ്ങനെ നമ്മൾ ഇത് തുടരുന്നു നമുക്ക് 6 വെക്ടറുകൾ കിട്ടും ഈ പ്രത്യേക ഘടന ഉപയോഗിച്ച് ഈ മെട്രിക്സുകളുടെ ഈ വെക്റ്റർ സ്പെയ്സിന്റെ സ്റ്റാൻഡേർഡ് ബെയ്സിസ് ഇതാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഈ ഫോർമാറ്റ് ചെയ്യുന്നതായി നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ ഇവിടെ നമ്മൾ ബെയ്സിസും ഡയമെന്ഷനും കണ്ടെത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ഈ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റും മെട്രിക്സുകളുടെ വെക്റ്റർ സ്പേസ് സ്പാൻ ചെയ്യുന്നതുമാണ് എന്തുകൊണ്ടാണ് അവ ഇൻഡിപെൻഡന്റ് ആകുന്നത് മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ ഉന്നയിച്ച അതേ വാദം വീണ്ടും അതിനാൽ നമ്മൾ അവയെ വെക്റ്റർ etc എന്നിങ്ങനെ എടുക്കുന്നു അതോടൊപ്പം എന്ന ഈ ലീനിയർ കോമ്പിനേഷനും എടുക്കുന്നു അതിനാൽ ഇതൊന്നുമല്ല നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യ എൻട്രി മറ്റുള്ളവ എല്ലാം ആയിട്ടുള്ള മാട്രിക്സ് ലഭിക്കും ഇവ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്നിങ്ങനെ ലഭിക്കുന്നു അതിനാൽ അവ ഇൻഡിപെൻഡെന്റ് വെക്റ്ററുകളാണ് രണ്ടാമത്തേത് അവ ഈ മെട്രിക്സ്കളുടെ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും അവ സ്പാൻ ചെയ്യുന്നു കാരണം ഈ മെട്രിക്സുകളിൽ നിന്നുള്ള ഏതെങ്കിലും മാട്രിക്സ് അഥവാ വെക്റ്ററുകളെന്ന് നമ്മൾ വിളിക്കുന്ന എലെമെന്റുകളെ നമ്മൾ ഇവിടെ എടുക്കുന്ന എന്തും ഉദാഹരണത്തിന് എന്ന മാട്രിക്സ് ഇത് ഈ സ്പെയ്സ്ൽ നിന്നുള്ള ഒരു പൊതു മാട്രിക്സ് ആണ് ഇത് പരിഗണിക്കുകയാണെങ്കിൽ ഈ വെക്റ്ററുകളുടെ സഹായത്തോടെ നമുക്ക് എളുപ്പത്തിൽ വിപുലീകരിക്കാൻ കഴിയും a എന്നത് ആദ്യം ആദ്യത്തേത്ലേക്ക് ഗുണിക്കണം b എന്നത് രണ്ടാമത്തേതിലേക്ക് ഗുണിക്കണം നമ്മൾ അങ്ങനെ തുടരുകയാണെങ്കിൽ ഈ വെക്റ്റർ സ്പെയ്സുകളിൽ നിന്നുള്ള ഈ പൊതു വെക്റ്ററിന്റെ റെപ്രെസെന്റഷൻ അതാണ് നമുക്ക് ഈ വെക്റ്റർ സ്പേസിൽ നിന്ന് ഏതെങ്കിലും വെക്റ്ററിനെ റെപ്രെസെന്റ് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കുന്നു അതിനാൽ ഈ വെക്റ്ററുകൾ ഈ വെക്റ്റർ സ്പേസിന്റെ ഒരു ബെയ്സിസായി മാറുന്നുവെന്നതാണ് നിഗമനം അതോടൊപ്പം വെക്റ്റർ സ്പേസിന്റെ ഡയമെന്ഷൻ ഇവിടെയുള്ള പ്രോഡക്റ്റ് 2 × 3 6 അഥവാ നമ്മൾക്ക് ഈ 6 മെട്രിക്സുകൾ ഉണ്ട് ഇതേ ആശയം മാട്രിക്സുകൾക്കായി നമുക്ക് പൊതുവത്കരിക്കാവുന്നതാണ് വെക്റ്റർ സ്പേസിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു ഉദാഹരണം അതായത് ഡിഗ്രി n നേക്കാൾ കുറവോ തുല്ല്യമോ ആയിട്ടുള്ള എല്ലാ പോളിനോമിയലുകളുടെയും സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടാക്കുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ സെറ്റിനെക്കുറിച്ച് സംസാരിക്കുന്നു ഈ n 1 പോളിനോമിയലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ യുടെ ഒരു ബൈസിസാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇത് ഒരു ബെയ്സിസ് ഫോം ചെയ്യുന്നത് കാരണം വീണ്ടും വ്യക്തമാണ് ഇവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോയെന്ന് പരിശോധിക്കേണ്ടതുണ്ട് മറ്റ് ഉദാഹരണങ്ങൾക്കായി നമ്മൾ ചെയ്തതുപോലെ നമുക്ക് പരിശോധിക്കാനാകും ഇവിടെ ഇത് 0 ആയി സജ്ജമാക്കും ഈ ലാംബാഡകളെല്ലാം 0 ആയിരിക്കുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ അതിനാൽ സ്വാഭാവികമായും ഇവ യുടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ വെക്റ്ററുകളാണ് രണ്ടാമത്തേത് നമ്മൾ എടുക്കുന്ന ഈ ൽ നിന്നുള്ള ഏതെങ്കിലും പോളിനോമിയൽ ഈ വെക്റ്ററുകളുടെ സഹായത്തോടെ ആ പോളിനോമിയലിനെ റെപ്രെസെന്റ് ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ വീണ്ടും ഇവിടെ ഈ എന്ന് പറയുന്ന പൊതുവായ ഒരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ അത് ഡിഗ്രി n നേക്കാൾ കുറവോ തുല്ല്യമോ ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ് കാരണം ഈ സ്പേസിലെ പോളിനോമിയലുകളുടെ ഡിഗ്രി n നേക്കാൾ കുറവോ തുല്ല്യമോ ആണ് ഇവിടെ നൽകിയ പോളിനോമിയലുകളുടെ സഹായത്തോടെ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാനാകും 1 മായും t യുമായും മായും അങ്ങനെ തുടർന്ന് മായും ഗുണിക്കുക അതിനാൽ ഈ നൽകിയ വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആണിത് അതിനാൽ ഈ സെറ്റിന്റെ അഥവാ സ്പേസിന്റെ ഏതെങ്കിലും എലെമെന്റിനെ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷനായി റെപ്രെസെന്റ് ചെയ്യാം അതിനാൽ ഈ സെറ്റ് യുടെ ഒരു ബെയ്സിസ് സൃഷ്ടിക്കുന്നു അത് നമ്മൾ പിന്നീട് കൂടുതൽ വ്യക്തതയിലേക്ക് വരും ബെയ്സിസ് യൂണിക് അല്ല അതിനാൽ ഇത് നമ്മൾ ബെയ്സിസ് ആയി എഴുതുന്ന ഒരു സെറ്റ് ആണ് ബെയ്സിസ് ആവാൻ കഴിയുന്ന മറ്റ് സെറ്റുകളും ഉണ്ടാകാം നമ്മൾ തുടങ്ങിയ ആദ്യ ഉദാഹരണത്തിലെ പോലെ അവയ്ക്ക് ബെയ്സിസ് ഉണ്ടാക്കുന്ന 3 വെക്റ്ററുകൾ ഉണ്ടായിരുന്നു അവ സ്റ്റാൻഡേർഡ് ബെയ്സിസ് ആയിരുന്നില്ല അതിനാൽ ഉദാഹരണത്തിന് നമുക്ക് എന്നിവ യുടെ ബെയ്സിസ് ആയി തിരഞ്ഞെടുക്കാം അതും യുടെ ബെയ്സിസ് ആയിത്തീരും കൂടാതെ ഉദാഹരണത്തിൽ കണ്ടത് എന്നീ 3 വെക്ടറുകൾഉം ആയിരുന്നു അവ സ്റ്റാൻഡേർഡ് ബെയ്സിസ് ആയിരുന്നില്ല പക്ഷേ അവയും ബെയ്സിസ് ആയിരുന്നു അതിനാൽ ബെയ്സിസ് യൂണിക് അല്ല നമുക്ക് മറ്റൊരു സെറ്റ് ഉണ്ടായിരിക്കാം പ്രധാന സവിശേഷതകൾ എലെമെന്റുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അത് ഒരു പ്രോപ്പർട്ടിയാണ് രണ്ടാമത്തേത് അവ മുഴുവൻ വെക്റ്റർ സ്പേസിനെയും സ്പാൻ ചെയ്തിരിണം അതിനാൽ ഇവയാണ് യുടെ ബെയ്സിസ് എന്നും ഇവിടെ ഡയമെന്ഷൻ ബെയ്സിസിലെ എലെമെന്റുകളുടെ എണ്ണം ആയ ആണെന്ന് നമ്മൾ കണ്ടു അതിനാൽ നമുക്ക് ഡയമെന്ഷൻ ഉണ്ട് മറ്റൊരു ഉദാഹരണം ഹോമോജിനിയസ് സമവാക്യങ്ങളുടെ സിസ്റ്റം ഇവിടെ നമ്മൾ പുനരവലോകനം ചെയ്യുന്നു ഒരു ഹോമോജിനിയസ് ലീനിയർ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് ഉണ്ടാക്കുന്നുവെന്ന് നമുക്കറിയാം ഇവിടെ A എന്നായിരുന്നു അതുമായി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് ഈ എക്കെലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം ഇതിലൂടെനമുക്ക് ഈ തിരഞ്ഞെടുക്കാം എന്ന് നമ്മോട് പറയുന്നു കാരണം അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾക്ക് ഇവിടെ ഫ്രീ വേരിയബിളുകൾ ഉണ്ട് ഇവിടെ ഈ ഒന്നാം നിരയ്ക്ക് ഒരു പിവറ്റ് ഉണ്ട് എന്നാൽ ഈ രണ്ടാം നിരയ്ക്ക് ഇവിടെ ഒരു പിവറ്റ് ഇല്ല മൂന്നാം നിരക്കും നാലാം നിരക്കും പിവറ്റ് ഉണ്ട് എന്നാൽ അഞ്ചാം നിരക്ക് ഒരു പിവറ്റ് ഇല്ല അതിനാൽ എന്നിവ ഫ്രീ വേരിയബിളുകളായി തിരഞ്ഞെടുക്കണം ഇവ രണ്ടും എന്നിങ്ങനെ തിരഞ്ഞെടുത്ത് നമുക്ക് മറ്റെല്ലാ x കളും കണക്കുകൂട്ടാം നമ്മൾ കംബൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ സമവാക്യം ഇവിടെ ലഭിച്ചു അതിനാൽ ഈ രണ്ട് വെക്റ്ററുകളുടെ സഹായത്തോടെ ഈ Ax 0 എന്ന സിസ്റ്റത്തിന്റെ മുഴുവൻ സൊലൂഷൻ സെറ്റും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ നിരീക്ഷിച്ചു കാരണം നമ്മൾ ഈ ആൽഫകൾക്ക് ഇവിടെ ഏതൊരു മൂല്യം മാറ്റിക്കൊടുത്തു ഇരുന്നാലും നമുക്ക് ഒരു സൊല്യൂഷൻ ലഭിക്കുന്നു അതിനാൽ ഈ Ax 0 ന്റെ സാധ്യമായ എല്ലാ സൊലൂഷൻകളും നമുക്ക് ഈ രണ്ട് വെക്റ്ററുകൾ ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ കഴിയും കൂടാതെ ഈ രണ്ട് വെക്റ്ററുകൾ അവ നോക്കുമ്പോൾ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളാണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഈ ലീനിയർ കോമ്പിനേഷന്റെ സഹായത്തോടെ അത് 0 ആയി സജ്ജമാക്കി കൊണ്ട് നമുക്ക് ഔപചാരികമായി തെളിയിക്കാനാകും അതിൽനിന്ന് ആ കോയിഫിഷെന്റുകൾ എന്ന് ലഭിക്കുന്നു അതിനാൽ ഈ രണ്ട് വെക്റ്ററുകളും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അവയുടെ ലീനിയർ കോമ്പിനേഷൻന്ന് സൊല്യൂഷൻ സെറ്റിന്റെ ഏതൊരു വെക്റ്റർനെയും സൃഷ്ടിക്കാൻ കഴിയും ഇതിനർത്ഥം ഈ രണ്ട് വെക്റ്ററുകളും ഒരു ബെയ്സിസ് ഉണ്ടാക്കുന്നു കാരണം ആണ് ബെയ്സിസ്ന്റെ പ്രോപ്പർട്ടികൾ ഈ രണ്ടിന്റെയും സഹായത്തോടെ അല്ലെങ്കിൽ ഈ രണ്ട് വെക്റ്ററുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷനായി സൊല്യൂഷൻറെ ഏത് എലെമെന്റും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും കൂടാതെ ഈ രണ്ട് വെക്റ്ററുകളും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അതിനാൽ അവ സൊലൂഷൻ സെറ്റിനെ സ്പാൻ ചെയ്യുന്നു അതോടൊപ്പം ഈ രണ്ട് വെക്റ്ററുകളും ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ് അതിനാൽ അവ ഒരു ബെയ്സിസ് ആയി മാറുന്നു അതിനാൽ ഈ വെക്റ്ററുകൾ ഇവിടെ നൾ സ്പേസ് ന്റെ ബെയ്സിസ് ഉണ്ടാക്കുന്നു ഈ സൊലൂഷൻ സെറ്റിനെ നമ്മൾ ഒരു പ്രത്യേക പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോർക്കുക അതിനെ നമ്മൾ നൾ സ്പേസ് എന്ന് വിളിക്കുന്നു ഇത് ഒരു വെക്റ്റർ സ്പെയ്സ് ആണ് അതിനെ null സ്പേസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ വെക്റ്ററുകൾ A യുടെ നൾ സ്പേസ്ന്റെ ബെയ്സിസ് ഫോം ചെയ്യുന്നു അതോടൊപ്പം A യുടെ ഈ നൾ സ്പേസ്ന്റെ ഡയമെന്ഷൻ ഈ പ്രത്യേക കേസിൽ 2 ആണ് അതിന് വീണ്ടും ഒരു പേരുണ്ട് അതിനെ നള്ളിറ്റി എന്ന് വിളിക്കുന്നു അതിനാൽ നള്ളിറ്റി എന്നത് നൾ സ്പേസ്ന്റെ ഡയമെന്ഷൻ ആണ് ഈ ബെയ്സിസിനെയും ഡയമെൻഷനെയും സംബന്ധിച്ച് നമുക്കുള്ള നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ചില ഉപയോഗപ്രദമായ ഫലങ്ങൾ ഉണ്ട് V എന്നത് ഒരു n ഫൈനൈറ് ഡയമെന്ഷനൽ വെക്റ്റർ സ്പേസ് ആയിരിക്കട്ടെ അതിനാൽ വെക്റ്റർ സ്പെയ്സിന്റെ ഡയമെന്ഷൻ n ആണ് അപ്പോൾ V ലെ ഏതെങ്കിലും n1 അല്ലെങ്കിൽ കൂടുതൽ വെക്റ്ററുകൾ ലീനിയർലി ഡിപെൻഡ് ചെയ്യുന്നു അത് മറ്റൊരു നല്ല റിസൾട്ടാണ് അതിവിടെ നമ്മൾ തെളിയിക്കാൻ പോകുന്നില്ല എന്നാൽ ചില ലളിതമായ ഉദാഹരണങ്ങളുടെ സഹായത്തോടെ ഒരാൾക്ക് ഈ റിസൽട്ട് എങ്ങനെ ശരിയാണെന്നതിനുള്ള ചില ധാരണകളെങ്കിലും നേടാനാകും അതിനാൽ ഇന്ന് ഈ ലെക്ചർ ആരംഭിച്ച നമ്മുടെ ഉദാഹരണത്തിലെ ഏതെങ്കിലും n 1 നമ്മൾക്ക് ആ ഉദാഹരണത്തിൽ 4 വെക്റ്ററുകളുണ്ടായിരുന്നു പക്ഷേ അവ ലീനിയർലി ഡിപെൻഡ് ചെയ്തിരിക്കുന്നു അത് ഒരു സ്പാനിങ് സെറ്റ് ആയിരുന്നു പക്ഷേ ഇത് ഒരു ലീനിയർലി ഡിപെൻഡന്റ് സെറ്റായിരുന്നു അതിനാൽ ഇത് ഒരു ബെയ്സിസ് ആയിരുന്നില്ല അവയുടെ വെക്റ്ററുകൾ 4 ആയിരുന്നു അതേസമയം അവയിൽ ആദ്യ 3 വെക്റ്ററുകൾ മാത്രം എടുക്കുന്നതിലൂടെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഫോം ചെയ്യുന്നു അതോടൊപ്പം അത് ഒരു സ്പാനിങ് സെറ്റും ആകുന്നു അതിനാൽ അതൊരു ബെയ്സിസ് ആയിരുന്നു യുടെ ബെയ്സിസ് ആയിരുന്നു അതിലെ വെക്റ്ററുകൾ 3 ആയിരുന്നു അതിനാൽ യിലെ 4 വെക്റ്ററുകൾ യെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവയ്ക്ക് ബെയ്സിസ് ആകാൻ കഴിയില്ല കാരണം യിൽ നിന്നുള്ള 4 വെക്റ്ററുകൾ ലീനിയർലി ഡിപെൻഡന്റ് ആണ് ഇതാണ് ഇവിടുത്തെ റിസൾട്ട് അതിനാൽ V യിൽ നാം എടുക്കുന്ന ഏതൊരു n 1 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെക്റ്ററുകളും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും അതിനാൽ ഒരു വെക്റ്റർ സ്പെയ്സിന് അതിന്റെ ഡയമെന്ഷൻ n ആണെങ്കിൽ നമുക്ക് n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളേക്കാൾ കൂടുതൽ ലഭിക്കില്ല നമ്മൾ ഏതെങ്കിലും n1 അല്ലെങ്കിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവ ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും n എലെമെന്റുകളോട് കൂടിയ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റും V യുടെ ഒരു ബെയ്സിസ് ആണ് ഇത് മറ്റൊരു മനോഹരമായ റിസൾട്ട് ആണ് ബെയ്സിസിലെ എലെമെന്റുകൾ എടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല നമുക്ക് ഏതെങ്കിലും n എലെമെന്റുകൾ എടുക്കാവുന്നതാണ് ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് മാത്രം അതിനാൽ n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളുള്ള ഏതൊരു സെറ്റും ഒരു ബെയ്സിസ് ആയിരിക്കും കാരണം അടിസ്ഥാനപരമായി ഇവ യാന്ത്രികമായി സ്പാനിംഗ് സെറ്റായിരിക്കും ലീനിയർലി ഇൻഡിപെൻഡന്റ്ആയിട്ടുള്ള ഏതൊരു n വെക്റ്ററുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അവ കൊണ്ടു ഫോം ചെയ്യുന്നഎന്ന സെറ്റ് n എലെമെന്റുകളുള്ള ഒരു സ്പാനിങ് സെറ്റുമായിരിക്കും അതിനാൽ ഒരു വെക്റ്റർ സ്പെയ്സിന് ഫൈനൈറ് ബെയ്സിസ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ ബെയ്സിസ്നും ഒരേ എണ്ണം എലെമെന്റുകളാണുണ്ടാവുക അത് മറ്റൊരു മനോഹരമായ റിസൾട്ടാണ് ബെയ്സിസ്ൽ നമുക്ക് n എണ്ണം എലെമെന്റുകളുണ്ടെങ്കിൽ അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ ബെയ്സിസ് സെറ്റുകളുണ്ടെങ്കിലും അവയ്ക്ക് ഒരേ എണ്ണം എലെമെന്റുകൾ ആണ് ഉണ്ടാകുക കാരണം അതിൻറെ ഡയമെൻഷൻ n ആണ് അതിനാൽ നമ്മൾ ഒരു വെക്റ്റർ സ്പേസിന്റെ ഏതൊരു ബെയ്സിസ് എടുത്താലും ആ സെറ്റിൽ n എലെമെന്റുകൾ ആയിരിക്കും ഉണ്ടാവുക വെക്റ്റർ സ്പേസിന്റെ ബെയ്സിസിലുമുള്ള എലെമെന്റുകളുടെ എണ്ണത്തെ നമ്മൾ വെക്റ്റർ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് വിളിക്കുന്നു അത് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതാണ് ഉദാഹരണത്തിന് 4 വെക്റ്ററുകളുടെ എന്ന ഈ സെറ്റ് നമ്മൾ എടുക്കുന്നു അവ ന്റെ ബെയ്സിസ് ഫോം ചെയ്യുന്നു ഈ വെക്റ്ററുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റാണെന്ന കാര്യം ശ്രദ്ധിക്കുക ഈ പ്രത്യേക ഘടന ഉള്ളപ്പോഴെല്ലാം നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റാണെന്ന് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും ആദ്യത്തേതിൽ എല്ലാം 1 ഉം പിന്നീട് രണ്ടാമത്തേതിൽ മൂന്ന് 1 ഉം മൂന്നാമത്തേതിൽ രണ്ട് 1 ഉം അവസാനത്തേതിൽ ഒരു 1 ഉം ആയതിനാൽ അവ ഒരു ബെയ്സിസ് ഫോം ചെയ്യുന്നു യുടെ കാര്യത്തിൽ നാം കണ്ട പോലെ അതിനാൽ ഇത് ഒരു ബെയ്സിസ് ഉണ്ടാക്കുന്നു കാരണം ഇവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് കൂടാതെ ന്റെ ഡയമെൻഷൻ 4 ആണെന്ന് നമുക്കറിയാം അതിനാൽ അവ ലീനിയർലി ഇൻഡിപെൻഡന്റാണെന്നും അവയുടെ എണ്ണം 4 ആണെന്നും പരിശോധിക്കേണ്ടതില്ല കാരണം ന്റെ ഡയമെൻഷനും നമുക്കറിയാം അതിനാൽ ൽ നിന്ന് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റായി ഏതെങ്കിലും 4 വെക്റ്ററുകൾ ഉണ്ടെങ്കിൽ ഈ 4 വെക്റ്ററുകൾ മാത്രമല്ല നമുക്ക് ഒരു ബെയ്സിസ് ഉണ്ടാക്കുന്നതിന് മറ്റു ഏതെങ്കിലും 4 ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളും തിരഞ്ഞെടുക്കാം തന്നിരിക്കുന്ന വെക്റ്ററുകൾ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അവ ഒരു ബെയ്സിസ് ആയിരിക്കണം കാരണം ഡയമെന്ഷൻ 4 ഉം നമുക്ക് ഈ 4 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളും ഉണ്ട് ലെ ഈ 4 വെക്ടറുകൾ പരിഗണിക്കുക അതിനാൽ ഈ 4 വെക്റ്ററുകളും ൽ നിന്നുള്ളതാണെന്നും ന്റെ ഡയമെന്ഷൻ 3 ആണെന്നും നമുക്കറിയാം അതിനാൽ ഡയമെന്ഷൻ 3 ആകുമ്പോൾ ഈ വെക്റ്ററുകൾ ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകാൻ കഴിയില്ല കാരണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അവയും ഒരു ബെയ്സിസ് ഉണ്ടാക്കാൻ കഴിയും അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അവ യെ സ്പാൻ ചെയ്യുകയും അവ ബെയ്സിസ് ആവുകയും ചെയ്യാം എന്നാൽ ബെയ്സിസ്ൽ 3 എലെമെന്റുകൾ മാത്രമേ ഉണ്ടാകൂ 3 ലധികം എലെമെന്റുകൾ ഉണ്ടാവുകയില്ല ഇവിടെ നമുക്ക് 4 ഘടകങ്ങളുണ്ട് അതിനാൽ തീർച്ചയായും അവ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും അത് യുടെ ഡയമെന്ഷൻ 3 ആണെന്നതിൽ നിന്ന് നമുക്ക് നിഗമനം ചെയ്യാൻ കഴിയും അതിനാൽ യുടെ ബെയ്സിസ്ൽ 4 ഘടകങ്ങൾ ഉണ്ടാകരുത് ഇവിടെ നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുന്നു ഒരു വെക്റ്റർ സ്പേസ് V ലെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളുടെ പരമാവധി എണ്ണമാണ് V യുടെ ഡയമെന്ഷൻ ആവുന്നത് കൂടാതെ ഒരു വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്ന ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്ററുകളുടെ ഒരു സെറ്റാണ് V യുടെ ബെയ്സിസ് ആവുന്നത് ഇത്രയുമാണ് ഈ ലെക്ച്ചറിൽ നമ്മൾ ചർച്ച ചെയ്തത് ലെക്ച്ചറുകൾ തയ്യാറാക്കാൻ ഇവിടെ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെയധികം നന്ദി